നമസ്കാരം സർവീസ് മാർക്കറ്റിംഗ് വിത്ത് എ പ്രാക്ടിക്കൽ അപ്പ്രോച്ചിന്റെ ഈ സെഷനിലേയ്ക്ക് എല്ലാവർക്കും സ്വാഗതം മാനേജിങ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റി പാർട്ട് 1 കൈകാര്യം ചെയ്യുന്ന പാഠം നമ്പർ 25 ലേക്ക് നമ്മൾ പോകുന്നു അതിനാൽ ഒപ്റ്റിമം ആൻഡ് മാക്സിമം യൂസ് ഓഫ് കപ്പാസിറ്റി കപ്പാസിറ്റി പരിമിതികൾ ഡിമാൻഡ് പാറ്റേണുകൾ മനസ്സിലാക്കൽ കപ്പാസിറ്റിയും ഡിമാന്റുമായി പൊരുത്തപ്പെടുന്നതിനുള്ള തന്ത്രങ്ങൾ ഡിമാൻഡുമായി പൊരുത്തപ്പെടുന്നതിനുള്ള കപ്പാസിറ്റി ക്രമീകരിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ എന്നിവ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും സേവന സൌകര്യത്തിന്റെ സ്ഥാനവും സേവന വിതരണത്തിന്റെ ഇലക്ട്രോണിക് ചാനലുകളുടെ ഗുണനിലവാരവും നമ്മൾ മുൻ പാഠത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ പാഠത്തിൽ സേവന വിതരണത്തിന്റെ മറ്റൊരു വശം നമ്മൾ ചർച്ച ചെയ്യും അങ്ങനെയാണ് സേവന ബിസിനസുകൾ അവരുടെ സേവനങ്ങളുടെ ആവശ്യകതയുമായി പൊരുത്തപ്പെടേണ്ടത് ഉച്ച ഭക്ഷണ സമയത്തോ അത്താഴ സമയത്തോ ഒരു റെസ്റ്റോറന്റിൽ വലിയ ഡിമാൻഡുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്നാൽ മറ്റ് സമയങ്ങളിൽ ഉപഭോക്താക്കൾ താരതമ്യേന കുറവാണ് റെസ്റ്റോറന്റിന്റെ കപ്പാസിറ്റിയിൽ ഒരു പരിമിതി ഉള്ളതിനാൽ റെസ്റ്റോറന്റിന് ഏത് സമയത്തും പരിമിതമായ ഉപഭോക്താക്കൾക്ക് മാത്രമേ സേവനം നൽകാൻ കഴിയൂ തിരക്കുള്ള സമയങ്ങളിലും തിരക്കേറിയ സമയങ്ങളിലും കൂടുതൽ ഉപഭോക്താക്കൾ റെസ്റ്റോറന്റിലെത്തിയാൽ അവർ സേവനത്തിനായി കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ അവർ ആ റെസ്റ്റോറന്റ് വിട്ട് മറ്റെവിടെയെങ്കിലും പോകേണ്ടി വരും കാത്തിരിക്കുന്നത് ഉപഭോക്താവിന് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം മറുവശത്ത് കപ്പാസിറ്റി പരിമിതി കാരണം ഉപഭോക്താക്കൾക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നാൽ റെസ്റ്റോറന്റിന് ബിസിനസ്സ് നഷ്ടപ്പെടുകയാണ് അതേ സമയത്ത് ചില സമയങ്ങളിൽ വളരെ കുറവ് ഉപഭോക്താക്കൾ ആവും ഉണ്ടാവുക ഇതിനർത്ഥം തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ കടന്നു വരുന്ന ഉപഭോക്താക്കളെ സേവിക്കുന്നതിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ സെർവർമാർ ഉണ്ട് എന്നാണ് കൂടാതെ സേവന ബിസിനസ്സ് നിഷ്ക്രിയത്വം കാരണം അതിന്റെ വിഭവങ്ങൾ പാഴാക്കുകയാണ് സേവനങ്ങളുടെ ആവശ്യകതയും കപ്പാസിറ്റിയും തമ്മിലുള്ള പൊരുത്തക്കേടിന്റെ ഈ പ്രതിഭാസം സംഭവിക്കുന്നത് സേവനങ്ങളുടെ നശിച്ചു പോകുന്നതും ഒരേസമയം ഉള്ളതുമായ സവിശേഷതകൾ മൂലമാണ് മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ മറികടക്കാൻ റെസ്റ്റോറന്റുകൾ ഉപയോഗിക്കുന്ന ചില രീതികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം മക്ഡൊണാൾഡ് പോലുള്ള ചില റെസ്റ്റോറന്റുകൾ തിരക്കൊഴിഞ്ഞ കാലയളവിൽ ഹാപ്പി അവേഴ്സ് ഉപയോഗിക്കുന്നു ഈ സമയത്ത് മക്ഡൊണാൾഡ് ഉപഭോക്താക്കൾക്ക് ഇളവുകൾ നൽകുന്നു മറ്റ് റെസ്റ്റോറന്റുകൾ ഫ്ലോട്ടിംഗ് സ്റ്റാഫിനെ ഉപയോഗിക്കുന്നു അവർ തിരക്കുള്ള സമയങ്ങളിൽ ഉപഭോക്താക്കളെ സേവിക്കുകയും തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ മറ്റ് ജോലികൾ ചെയ്യുകയും ചെയ്യുന്നു കപ്പാസിറ്റിയുടെ പരമാവധി ഉപയോഗം കപ്പാസിറ്റിയുടെ പരമാവധി ഉപയോഗവും പരമാവധി കപ്പാസിറ്റിയുടെ പരമാവധി ഉപയോഗവും തമ്മിൽ വ്യത്യാസമുണ്ട് ഒപ്റ്റിമൽ ഉപയോഗം എല്ലാ വിഭവങ്ങളും ഉൽപാദനക്ഷമമായി ആവശ്യമുള്ള ഗുണനിലവാരം ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു അതേ സമയം പരമാവധി ഉപയോഗത്തിന് ആവശ്യമുള്ള ഗുണനിലവാരത്തിൽ കൂടുതൽ ഉപഭോക്താക്കൾക്ക് വിഭവങ്ങൾ സേവിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും വ്യക്തമായും ഒരു സേവന ബിസിനസ്സ് മാക്സിമം കപ്പാസിറ്റി പ്രയോജനപ്പെടുത്തുന്നതിനു പകരം അതിന്റെ ഒപ്റ്റിമം കപ്പാസിറ്റി ഉപയോഗിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു വാഗ്ദാനം ചെയ്യപ്പെട്ട സേവന ഗുണനിലവാരം തുടർച്ചയായി നൽകുന്നതിന് സേവന ബിസിനസുകൾ അതിന്റെ മാനവ വിഭവ കപ്പാസിറ്റിയുടെയും മറ്റ് ഭൌതിക സൌകര്യങ്ങളുടെയും പരമാവധി കപ്പാസിറ്റി മനസ്സിലാക്കുകയും ക്രോഡീകരിക്കുകയും വേണം കപ്പാസിറ്റി പരിമിതികൾ സേവനത്തിന്റെ തരം സമയം തൊഴിൽ ഉപകരണങ്ങൾ സൌകര്യങ്ങൾ അല്ലെങ്കിൽ ഇവയുടെ സംയോജനം എന്നിവയെ ആശ്രയിച്ച് പല സ്ഥാപനങ്ങൾക്കും സേവന കപ്പാസിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് റെസ്റ്റോറന്റ് സേവനങ്ങൾക്ക് സമയം ഒരു തടസ്സമാണ് ഉപകരണങ്ങൾ ഒരു ഫിറ്റ്നസ് സെന്ററിനും സൌകര്യങ്ങൾ ഒരു സ്കൂളിനോ കോളേജിനോ തടസ്സമാണ് ഡിമാൻഡ് പാറ്റേണുകൾ മനസിലാക്കുക സാമയികവും ക്രമരഹിതവുമായ ഡിമാൻഡ് ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് ചാർട്ട് ചെയ്യുകയും അവയുടെ കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം ഡിമാൻഡും കപ്പാസിറ്റിയും പൊരുത്തപ്പെടുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഇത് നമ്മെ സഹായിക്കും സാമയിക ഡിമാൻഡ് മണിക്കൂറിലോ ദിവസേനയോ ആഴ്ചതോറുമോ പ്രതിമാസമോ വാർഷികമോ ആയി നമുക്ക് ചാർട്ട് ചെയ്യാം ഉദാഹരണത്തിന് റെസ്റ്റോറന്റുകൾക്ക് ദിവസേനയുള്ള ഡിമാൻഡ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നാൽ റീട്ടെയിൽ സ്റ്റോറുകൾക്ക് വാർഷിക ഡിമാൻഡ് ഏറ്റക്കുറച്ചിലുകളാണുള്ളത് അതുപോലെ കാലാവസ്ഥ പോലെയുള്ള ഘടകങ്ങൾ മൂലം റസ്റ്റോറന്റ് സീറ്റുകളുടെ ഡിമാൻഡ് ബാധിക്കപ്പെടാം എന്നതു പോലുള്ള കാരണങ്ങളാൽ ക്രമരഹിതമായ ഡിമാൻഡ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അതുപോലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഡിമാൻഡിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം ഉദാഹരണത്തിന് ഒരു ബാങ്ക് അതിന്റെ ബിസിനസ്സ് ഉപഭോക്താക്കളിൽ നിന്ന് പ്രവചിക്കാവുന്ന സേവന ഡിമാൻഡ് നേരിട്ടേക്കാം അതുപോലെ അതിന്റെ വ്യക്തിഗത ഉപഭോക്താക്കളിൽ നിന്ന് പ്രവചനാതീതമായ ഡിമാൻഡും നേരിട്ടേക്കാം കപ്പാസിറ്റി ഡിമാൻഡ് എന്നിവയുമായി പൊരുത്തപ്പെടുന്നതിനുള്ള തന്ത്രങ്ങൾ സേവന ബിസിനസുകൾക്ക് അവരുടെ കപ്പാസിറ്റി പരിമിതികളെക്കുറിച്ചും അവരുടെ ഡിമാൻഡ് ഏറ്റക്കുറച്ചിലുകളുടെ ഉറവിടത്തെയും ആനുകാലികതയെയും കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യവുമായി അവരുടെ കപ്പാസിറ്റിയുമായി അടുത്തു നിൽക്കാൻ കഴിയും ഒരു റെസ്റ്റോറന്റ് ബിസിനസിനായുള്ള അത്തരം മത്സരത്തിന്റെ ഒരു ഉദാഹരണം ഈ പാഠത്തിൽ നേരത്തെ നൽകിയിട്ടുണ്ട് ആവശ്യവുമായി പൊരുത്തപ്പെടുന്ന കപ്പാസിറ്റിക്ക് രണ്ട് പൊതുവായ തന്ത്രങ്ങളുണ്ട് കപ്പാസിറ്റിയുമായി പൊരുത്തപ്പെടുന്നതിനായി മക്ഡൊണാൾഡിന്റെ ഹാപ്പി അവേഴ്സിലെന്നതുപോലെ പീക്ക് ഡിമാൻഡിന്റെ ഭാഗങ്ങൾ തിരക്കില്ലാത്ത സമയത്തേക്ക് മാറ്റിക്കൊണ്ട് ഡിമാൻഡ് ഏറ്റക്കുറച്ചിലുകൾ സുഗമമാക്കുക എന്നതാണ് ആദ്യത്തേത് രണ്ടാമത്തെ തന്ത്രം മുമ്പത്തെ ഉദാഹരണത്തിൽ കൊടുത്തിരിക്കുന്നതു പോലെ ഉയർന്ന സമയങ്ങളിൽ ഉപഭോക്താക്കളെ സേവിക്കാനും തിരക്ക് കുറവുള്ള സമയങ്ങളിൽ മറ്റ് ജോലികൾ ചെയ്യാനും കഴിയുന്ന മൾട്ടി സ്കിൽഡ് സ്റ്റാഫിനെ ഉപയോഗിക്കുന്നതു പോലെ ആവശ്യകതയുടെ ഉന്നതിയും തൊട്ടികളുമായി അധിക കപ്പാസിറ്റിയെ പൊരുത്തപ്പെടുത്തുക എന്നതാണ് മേൽപ്പറഞ്ഞ രണ്ട് പൊതു തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാവുന്ന വിവിധ തന്ത്രങ്ങൾ താഴെ പറയുന്ന വിഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നു കപ്പാസിറ്റിയും ഡിമാൻഡും പൊരുത്തപ്പെടുന്നതിനുള്ള തന്ത്രങ്ങൾ അതിനാൽ ഇവിടെ ഡിമാൻഡ് വളരെ കൂടുതലോ അല്ലെങ്കിൽ ഡിമാൻഡ് വളരെ കുറവോ ആണെന്ന് നമ്മൾ കാണുന്നു അതിനാൽ നമ്മൾ ഡിമാൻഡ് ഇടത് വശത്ത് നിന്ന് വലത് വശത്തേക്ക് മാറ്റേണ്ടതുണ്ട് അതിനാൽ ഇവിടെ അവർ സമയവും സേവന വിതരണ സ്ഥലവും പരിഷ്ക്കരിക്കുന്നു ആവശ്യകത കൂടുതലാകുമ്പോൾ ഉപയോഗിക്കാവുന്ന ചില തന്ത്രങ്ങളാണ് തിരക്കുള്ള സമയങ്ങൾ ഉപഭോക്താക്കളോട് ആശയവിനിമയം നടത്തുക നോൺ പീക്ക് ഉപയോഗത്തിന് ഇൻസെന്റീവുകൾ വാഗ്ദാനം ചെയ്യുക ആദ്യം വിശ്വസ്തരായ അല്ലെങ്കിൽ ഉയർന്ന ആവശ്യക്കാരായ ഉപഭോക്താക്കളെ പരിപാലിക്കുന്നതിലൂടെ മുൻഗണനകൾ നൽകുകയും സേവനങ്ങൾക്ക് വിലക്കുറവില്ലാത്ത വില ഈടാക്കുകയും ചെയ്യുക ആവശ്യകത വളരെ കുറവാണെങ്കിൽ പരമാവധി ഉപയോഗ സമയങ്ങളും ഉയർന്ന ഉപയോഗമില്ലാത്ത ആനുകൂല്യങ്ങളും പരസ്യപ്പെടുത്തുക നിലവിലെ മാർക്കറ്റ് സെഗ്മെന്റിൽ നിന്ന് ബിസിനസിനെ ഉത്തേജിപ്പിക്കുക സൌകര്യം എങ്ങനെ ഉപയോഗിക്കുന്നു സേവന ഓഫറിൽ വ്യത്യാസമുണ്ടാകുകയും വിലയിൽ വ്യത്യാസമുണ്ടാകുകയും ചെയ്യുക കപ്പാസിറ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആവശ്യകത വളരെ കൂടുതലാണെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതും ചുവടെ ചർച്ച ചെയ്തതുമായ പീക്ക് സമയത്തെ ആവശ്യം കുറയ്ക്കുന്നതിന് വിവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കാം ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്തുക ആവശ്യകത കൂടുതലാകുമ്പോൾ അത് മാറ്റാനുള്ള സമീപനം എന്താണെന്നാൽ ഉപഭോക്താക്കളെ ഉയർന്ന ഡിമാൻഡുള്ള സമയങ്ങളെ അറിയിക്കുക എന്നതാണ് കുറഞ്ഞ ഡിമാൻഡുള്ള സമയങ്ങളിൽ ഈ സൌകര്യം സന്ദർശിക്കാൻ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിക്കാവുന്നതാണ് സേവന ഡെലിവറിയുടെ സമയവും ലൊക്കേഷനും പരിഷ്ക്കരിക്കുക ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ദൈർഘ്യമേറിയ പ്രവർത്തന സമയം ആവശ്യകത മാറ്റുന്നതിനുള്ള ഒരു രീതിയാകാം മാത്രമല്ല ബാങ്കുകളും തീയറ്ററുകളും പോലുള്ള സൂപ്പർമാർക്കറ്റുകളിലേക്കോ ഹൈപ്പർമാർക്കറ്റുകളിലേക്കോ ഉള്ള സൌകര്യങ്ങൾ ഈ സൌകര്യങ്ങളുടെ ആവശ്യം സുഗമമാക്കുന്നതിന് സഹായിക്കും നോൺ പീക്ക് ഉപയോഗത്തിന് ഇൻസെന്റീവ് വാഗ്ദാനം ചെയ്യുക സീസണിന്റെ തുടക്കത്തിലോ സീസൺ ഉപയോഗത്തിന്റെ അവസാനത്തിലോ ഇൻസെന്റീവുകൾ വാഗ്ദാനം ചെയ്യാം മുൻഗണനകൾ നിശ്ചയിക്കുക സേവനദാതാക്കൾക്ക് ഏറ്റവും ലാഭകരമായ ഉപഭോക്താക്കൾക്ക് സേവന വിതരണത്തിന് മുൻഗണന നൽകാൻ കഴിയും അതുവഴി മറ്റ് ഉപഭോക്താക്കളെ തിരക്കേറിയ സമയങ്ങളിൽ അവരുടെ ഊഴം കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നു മുഴുവൻ വിലയും ഈടാക്കുക സേവനദാതാക്കൾക്ക് തിരക്കേറിയ സമയങ്ങളിൽ സേവനങ്ങൾ ഉപയോഗിക്കേണ്ട ഉപഭോക്താക്കൾക്ക് മുഴുവൻ വിലയും ഈടാക്കാം സേവന ദാതാവിന്റെ കപ്പാസിറ്റിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആവശ്യകത വളരെ കുറവായിരിക്കുമ്പോൾ ചർച്ച ചെയ്തതുപോലെ വിവിധ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആവശ്യം വർദ്ധിപ്പിക്കാൻ കഴിയും നിലവിലെ മാർക്കറ്റ് സെഗ്മെന്റുകളിൽ നിന്നുള്ള ബിസിനസ്സ് ഉത്തേജിപ്പിക്കുക വിനോദ സഞ്ചാരികളെപ്പോലുള്ള സേവനദാതാക്കൾക്ക് ലാഭം കുറവായിരിക്കുന്ന കാലയളവിൽ ആവശ്യം വർദ്ധിപ്പിക്കുന്നതിന് അത്തരം സമയത്ത് അവരുടെ സേവനങ്ങൾ പരസ്യം ചെയ്യാൻ കഴിയും ബദൽ ഉപയോഗങ്ങൾക്കുള്ള സൌകര്യം നൽകുക സേവനദാതാക്കൾക്ക് ബദൽ ഉപയോഗങ്ങൾക്ക് കുറഞ്ഞ കാലയളവിൽ അവരുടെ സൌകര്യം നൽകാൻ കഴിയും ഉദാഹരണത്തിന് സിനിമാ തിയേറ്ററുകൾക്ക് മുഷിഞ്ഞ കാലയളവിൽ ബിസിനസ് കൺവെൻഷനുകൾക്കായി അവരുടെ സൌകര്യങ്ങൾ വാടകയ്ക്ക് നൽകാം സേവന ഓഫറുകൾ വ്യത്യസ്തപെടുത്തുക ആവശ്യകത സുഗമമാക്കുന്നതിന് തിരക്കേറിയ സമയങ്ങളിൽ എങ്ങനെയാണ് സേവനം വാഗ്ദാനം ചെയ്യുന്നതെന്ന് സേവനദാതാക്കൾക്ക് വ്യത്യാസപ്പെടാം തിയേറ്ററുകൾ നിറയുമ്പോൾ സിനിമ തുടങ്ങുമെന്ന് ഭയന്ന് ആളുകൾ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ തയ്യാറാകില്ല അവർ നീണ്ട ക്യൂവിൽ ചർച്ചകൾ നടത്തുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ തിയേറ്ററിനുള്ളിൽ ഭക്ഷണസാധനങ്ങൾ നൽകാനും ആവശ്യം വർദ്ധിപ്പിക്കാനും കഴിയും വിലയിൽ വ്യത്യാസം വരുത്തുക അത്ര ലാഭകരമല്ലാത്ത സമയങ്ങളിൽ ആവശ്യകത ഉയർത്തുന്നതിന് സേവനദാതാക്കൾക്ക് തങ്ങളുടെ സേവനങ്ങൾ കുറഞ്ഞവിലയിൽ നൽകാൻ കഴിയും അതുപോലെതന്നെ വളരെ തിരക്കേറിയ സമയങ്ങളിൽ സേവനങ്ങളുടെ ആവശ്യകത കുറയ്ക്കുന്നതിന് ഉയർന്ന വിലയും ആവശ്യവുമായി പൊരുത്തപ്പെടുന്ന കപ്പാസിറ്റി ക്രമീകരിക്കുന്നതിനുള്ള തന്ത്രങ്ങളിലേക്ക് ഇനി കടക്കുന്നു ഇവിടെ ആവശ്യം വളരെ കൂടുതലുള്ളതും ആവശ്യകത വളരെ കുറവുള്ളതുമുണ്ട് അതിനാൽ ആവശ്യകത കൂടുതലാകുമ്പോൾ നമ്മൾ പാർട്ട് ടൈം ജീവനക്കാരെ ഉപയോഗിക്കുക സമയം അധ്വാനം സൌകര്യങ്ങൾ ഉപകരണങ്ങൾ എന്നിവ താൽക്കാലികമായി കൂട്ടുക ജീവനക്കാരെ ബഹുമുഖ വിദഗ്ധർ ആക്കാൻ പരിശീലിപ്പിക്കുക പാർട്ട് ടൈം ജീവനക്കാരെ നിയമിക്കുക ജീവനക്കാരിൽ നിന്ന് ഓവർടൈം ജോലി അഭ്യർത്ഥിക്കുക സബ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് പ്രവർത്തനങ്ങൾ സൌകര്യങ്ങളും ഉപകരണങ്ങളും പങ്കിടൽ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കൽ ആവശ്യകത വളരെ കുറവാണെങ്കിൽ അറ്റകുറ്റപ്പണികളും നവീകരണങ്ങളും നടത്തുക കുറഞ്ഞ ഡിമാൻഡുള്ള സമയങ്ങളിൽ ഡൌൺ ടൈം ഷെഡ്യൂൾ ചെയ്യുക അവധിക്കാലം ഷെഡ്യൂൾ ചെയ്യുക ജീവനക്കാരുടെ പരിശീലനം ഷെഡ്യൂൾ ചെയ്യുക നോൺ പീക്ക് ഉപയോഗത്തിന്റെ ആനുകൂല്യങ്ങളും സൌകര്യങ്ങളും ഉപകരണങ്ങളും പരിഷ്ക്കരിക്കുക അല്ലെങ്കിൽ നീക്കുക സൌകര്യം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിൽ വ്യത്യാസം കൊണ്ടുവരുക സേവന ഓഫർ വ്യത്യാസപ്പെടുത്തുക വില വ്യത്യാസം കൊണ്ടുവരിക ആവശ്യകതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആവശ്യകത കൂടുതലാണെങ്കിൽ അതുമായി പൊരുത്തപ്പെടുന്നതിന് സേവന കപ്പാസിറ്റി താൽക്കാലികമായി ക്രമീകരിക്കാൻ കഴിയും ചർച്ച ചെയ്തതു പോലെ ആവശ്യകത കൂടുതലാകുമ്പോൾ കപ്പാസിറ്റി താൽക്കാലികമായി വർദ്ധിപ്പിക്കാൻ ആകും എന്നിരുന്നാലും കപ്പാസിറ്റി വിപുലീകരിക്കുമ്പോൾ സേവനത്തിന്റെ ഗുണനിലവാരം സ്വീകാര്യമായ പരിധിക്കുള്ളിൽ തുടരുമെന്ന് ഓർമ്മിക്കേണ്ടതാണ് താൽക്കാലികമായി സമയം നീട്ടുക അകൌണ്ടന്റുകൾക്ക് അത്തരം സമയങ്ങളിൽ ഉയർന്ന ഡിമാൻഡ് കൈകാര്യം ചെയ്യുന്നതിനായി ടാക്സ് സീസണിന്റെ അവസാനത്തോടടുത്തുള്ള ദീർഘകാല കാലയളവിൽ താൽക്കാലികമായി അവരുടെ സേവനങ്ങൾ നൽകാൻ കഴിയും താൽക്കാലികമായി തൊഴിൽ വർദ്ധിപ്പിക്കുക ഫ്രണ്ട്ലൈൻ ജീവനക്കാർ തിരക്കുള്ള സമയങ്ങളിൽ കൂടുതൽ അല്ലെങ്കിൽ തിരക്ക് കുറഞ്ഞ കാലയളവുകളെ അപേക്ഷിച്ച് കൂടുതൽ ഉപഭോക്താക്കളെ സേവിക്കേണ്ടത് ആയി വരുന്നു എന്നിരുന്നാലും തുടർച്ചയായ തൊഴിൽ വർദ്ധനവ് അവരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ആളുകൾക്ക് വേണ്ടത്ര ഉന്മേഷം നൽകണം താൽക്കാലികമായി സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തിരക്കേറിയ സമയങ്ങളിൽ കൂടുതൽ ഉപഭോക്താക്കളെ സേവിക്കുന്നതിനായി ഒരു റെസ്റ്റോറന്റ് പോലുള്ള ഒരു സൌകര്യത്തിനുള്ളിൽ കസേരകളും മേശകളും താൽക്കാലികമായി വർദ്ധിപ്പിക്കാൻ കഴിയും ഉപകരണങ്ങൾ താൽക്കാലികമായി വർദ്ധിപ്പിക്കുക ഉയർന്ന ഡിമാൻഡ് കൈകാര്യം ചെയ്യുന്നതിനായി തിരക്കേറിയ സമയങ്ങളിൽ കമ്പ്യൂട്ടറുകൾ ടൂർ ബസുകൾ തുടങ്ങിയവ താൽക്കാലികമായി വർദ്ധിപ്പിക്കാൻ കഴിയും സേവനങ്ങളുടെ ആവശ്യം വളരെ കുറവായിരിക്കുമ്പോൾ സേവന ദാതാവിന്റെ കപ്പാസിറ്റി കുറയ്ക്കാനാകും ഇത് ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങൾ ചുവടെ ചർച്ച ചെയ്യും പാർട്ട് ടൈം ജീവനക്കാരെ ഉപയോഗിക്കുക തിരക്കേറിയ സമയങ്ങളിൽ ജോലി ചെയ്യുന്നതിനായി പാർട്ട് ടൈം ജീവനക്കാരെ ഉപയോഗിക്കുക തിരക്കില്ലാത്ത സമയത്ത് അവരെ പോകാൻ അനുവദിക്കുകയും ചെയ്യുക ജീവനക്കാരെ വിവിധ നൈപുണ്യങ്ങൾ പരിശീലിപ്പിക്കുക അതിനാൽ ജീവനക്കാരെ ബഹുമുഖ വൈദഗ്ധ്യമുള്ളവരായി പരിശീലിപ്പിക്കുക അങ്ങനെ അവർക്ക് തിരക്കേറിയ സമയങ്ങളിൽ ചില സേവനങ്ങൾ നൽകാനും സാധാരണ സമയങ്ങളിൽ സ്വന്തം സേവനത്തിലേക്ക് മടങ്ങാനും കഴിയും ഔട്ട്സോഴ്സ് ഡിമാൻഡ് കപ്പാസിറ്റി കവിയുന്ന സമയങ്ങളിൽ കമ്പനികൾക്ക് അവരുടെ ജോലി ഔട്ട്സോഴ്സ് ചെയ്യാൻ കഴിയും ഉപകരണങ്ങൾ വാടകയ്ക്കെടുക്കുകയോ പങ്കിടുകയോ ചെയ്യുക ഒരു പള്ളിക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഒരു പ്രീ സ്കൂളുമായി ഒരു സൌകര്യം പങ്കിടാൻ കഴിയും അതേ സമയം വാരാന്ത്യങ്ങളിൽ പള്ളിക്ക് ഈ സൌകര്യം ഉപയോഗിക്കാനും കഴിയും കുറഞ്ഞ ഡിമാൻഡുള്ള സമയങ്ങളിൽ ഡൌൺടൈം ഷെഡ്യൂൾ ചെയ്യുക സേവന ദാതാവിന് അഴിച്ചുപണി അറ്റകുറ്റപ്പണികൾ നവീകരണങ്ങൾ എന്നിവ തിരക്കില്ലാത്ത സമയങ്ങളിൽ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഒരു കോളേജിന് അവധിക്കാലത്ത് ഫർണിച്ചറുകൾ നന്നാക്കാൻ കഴിയും സൌകര്യങ്ങളും ഉപകരണങ്ങളും പരിഷ്ക്കരിക്കുകയോ നീക്കുകയോ ചെയ്യുക ഹോട്ടലുകൾക്ക് താൽക്കാലിക പാർട്ടീഷൻ ഉപയോഗിച്ച് തിരക്കേറിയ സമയങ്ങളിൽ ഒന്നിൽ നിന്ന് രണ്ട് മുറികൾ സൃഷ്ടിക്കാൻ കഴിയും ആവശ്യത്തിന് കപ്പാസിറ്റി ക്രമീകരിക്കുന്നതിന് വിമാനത്തിലെ വിവിധ ക്ലാസുകളിലെ സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുന്നതിന് വിമാന സീറ്റുകൾ പുനക്രമീകരിക്കാൻ കഴിയും അതിനാൽ പാഠം 26 എന്ന അടുത്ത പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാനേജിങ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റി ഭാഗം 2 ആണ് ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നും ഇത് ഉപകാരപ്രദമാണെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു